ഇതാണ് രണ്ടാമത്തെ ഉദാഹരണം ഒരു ലൈനിൽ Ω ഇമ്പിടൻസ് ബന്ധിപ്പിച്ചിട്ടുണ്ട് ഇത് Y കണക്റ്റഡ് ലോഡ് ആയ 10 j8 Ω ആണ് ഇത് Y കണക്റ്റഡ് സ്രോതസ്സ് 110 ആംഗിൾ 0° യും ഇത് 110 ആംഗിൾ 120° യും ഇത് 110 ആംഗിൾ 240° യും ആണ് മാത്രമല്ല ഓരോ ലൈനിലും Ω 5 j2 Ω 5 j 2 Ω ഇമ്പിടൻസ് ബന്ധിപ്പിച്ചിട്ടുണ്ട് കറണ്ട് Ia Ib Ic എന്നിവ ആദ്യമേ തന്നിട്ടുണ്ട് ഇനി ZY എന്താണ് ചെയ്യുകയെന്നാൽ ഈ 5 j 2 Ω ഉം 10 j 8 Ω കൂട്ടി അത് ZY ആക്കുക എന്നതാണ് ആശയം അപ്പോൾ ഈ കേസിൽ ZY 10 j 8 15 j 6 Ω അതിനാൽ Ia Van ZY 110 ആംഗിൾ 0o 15 j 6 6 81 ആംഗിൾ 21 8o ആംപിയർ ആണ് അതുപോലെ നമ്മൾ Ib Ia ആംഗിൾ 120o എന്ന സമവാക്യം കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് 6 81 ആംഗിൾ 21 8o 121 8o എന്നാവും അതിനാൽ Ib 6 81 ആംഗിൾ 141 8o എന്നതാണ് സമാനമായി Ic Ia ആംഗിൾ 240o 6 81 ആംഗിൾ 21 8o 240o അതേ പോലെ Ic 6 81 ആംഗിൾ 21 8o 120o ഈ രണ്ടും കൂട്ടും അപ്പോൾ Ic 6 2o ഇവിടെ 240 21 8o ഉണ്ട് ഇതിന്റെ കൂടെ 360o കൂട്ടുക അപ്പോൾ 360 240 21 8 എന്നത് 98 2o ആംപിയർ എന്ന് ലഭിക്കും മറ്റെ ഫേസർ ഡയഗ്രം നിങ്ങൾ സ്വയം ചെയ്യുക അപ്പോൾ ലൈൻ വോൾട്ടേജ് VL √ 3 ഫേസ് വോൾട്ടേജ് Vp അത് കൊണ്ട് തന്നെ Vab √ 3 Vp ആംഗിൾ 30o VL √ 3 Vp ആണ് അതിനാൽ Vab VL ആംഗിൾ 30o അതേ പോലെ Vbc √ 3 Vp ആംഗിൾ 90o ഇതും നമ്മൾ ചെയ്തതാണ് ഇത് VL ആംഗിൾ 90o എന്നായിരിക്കും കാരണം √ 3 Vp VL ഇനി Vca √ 3 Vp ആംഗിൾ 210o VL ആംഗിൾ 210o ഫേസർ ഡയഗ്രത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് Van അനുസൃതമായി ഇതിൽ Vab ഇതാണ് Vbc ഇതാണ് Vca ഇതാണ് ഇത് ഈ ഫേസർ ഡയഗ്രത്തിൽ നിന്നാണ് ഇത് ആംഗിൾ 30o ആണ് Van അനുസൃതമായി ഇത് 90o യും ഇത് 210o ഡിഗ്രിയുമാണ് അപ്പോൾ ഇതാണ് Vab യും Vbc യും Vca യും ഇനി Vab Vbc ചെയ്യുകയാണെങ്കിൽ ഇത് VL ആംഗിൾ 30o VL ആംഗിൾ 90o എന്നായിരിക്കും അതിനാൽ Vbc അത് മുകളിൽ 120o ആയിരിക്കും അപ്പോൾ Vbc Vab ആംഗിൾ 120o എന്നാവും സമാനമായി Vab Vca ചെയ്യുകയാണെങ്കിൽ നമുക്ക് VL ആംഗിൾ 30o VL ആംഗിൾ 210o എന്ന് കിട്ടും അപ്പോൾ Vca Vab ആംഗിൾ 240o എന്നോ അല്ലെങ്കിൽ 360o കൂട്ടുകയാണെങ്കിൽ Vca Vab ആംഗിൾ 120o എന്നാവും ഇതാണ് ബന്ധം ഇനി സന്തുലിതമായ Y ∆ കണക്ഷനാണ് അടുത്തതിൽ സ്രോതസ്സ് Y ഉം ലോഡ് ∆ കണക്ഷനുമാണ് അപ്പോൾ ഇതാണ് എന്റെ സ്രോതസ്സ് Y അത് പോലെ ഇത് ∆ കണക്ഷനും ഇനി ഈ സർക്യൂട്ടിലേക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതാണ് Van ഇതാണ് Vbn ഇതാണ് Vcn മാത്രമല്ല ഇതാണ് ∆ കണക്ഷൻ ലോഡ് Z ∆ Z ∆ Z ∆ ഇത് ലൈൻ കറണ്ട് Ia യും ഇത് ലൈൻ കറണ്ട് Ib യും ഇത് ലൈൻ കറണ്ട് Ic യുമാണ് ലോഡ് ഫേസ് കറണ്ടിൽ ഇത് IAB യും ഇത് IBC യും ICA യുമാണ് ഇതാണ് ഫേസ് കറണ്ട് ഇതാണ് ലൈൻ കറണ്ട് ഇനി ഉദാഹരണത്തിന് നിങ്ങൾ KCL പ്രയോഗിക്കുകയാണെങ്കിൽ ഈ കറണ്ട് അകത്തേക്ക് വരുകയാണെന്ന് വെക്കാം അപ്പോൾ ഇത് കറണ്ട് Ia ആണ് ഇത് ICA ആണ് ഈ കറണ്ടും ഇങ്ങോട്ട് വരുകയാണ് അതിനാൽ ICA ഈ കറണ്ട് ഇവിടെ നിന്ന് വിട്ട് പോവുകയാണ് അതിനാൽ ഇത് IAB 0 അതിനർത്ഥം Ia IAB ICA സമാനമായി ഇവിടെയും KCL പ്രയോഗിക്കേണ്ടതുണ്ട് ഇവിടെ ഈ കേസിൽ ലൈൻ കറണ്ട് ഫേസ് കറണ്ടിന് തുല്യമല്ല കാരണം ഇതാണ് ലൈൻ കറണ്ട് അതിനു ശേഷം ഇതാണ് ഫേസ് കറണ്ട് ഇതാണ് ∆ ഇതാണ് ഞാൻ പറഞ്ഞ സർക്യൂട്ട് ഇനി ഒരു സന്തുലിതമായ Y ∆ കണക്ഷന് Van ആംഗിൾ 0o യും Vbn ആംഗിൾ 120o യും Vcn ആംഗിൾ 120o യും നൽകുന്നു മാത്രമല്ല നമുക്കറിയാം Vab VAB √ 3Vp ആംഗിൾ 30o ഇനി സർക്യൂട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ Vab എന്നത് ഇതാണ് ഞാൻ കുറച്ചൂടെ മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ ഇത് Vab VAB ആണ് ഇത് വളരെ എളുപ്പമാണ് ഇത് b യും ഇത് a യും ആണെങ്കിൽ ഇത് Vab ആണ് ഇവിടെ ഈ പോയിന്റും a ആണ് കാരണം ഇവിടെ ഒന്നും ബന്ധിപ്പിച്ചിട്ടില്ല അതേ പോലെ ഇത് B ആണ് അതിനാൽ Vab VAB ഇതേ രീതിയിൽ തന്നെയാണ് bc ക്കും ca ക്കും അപ്പോൾ അതിനർത്ഥം Vab VAB √ 3 Vp ആംഗിൾ 30o Vbc ഇതേ പോലെ √ 3 Vp ആംഗിൾ 90o യും Vca VCA √ 3 Vp ആംഗിൾ 210o യുമാണ് ഇനി IAB Vab Z∆ കാരണം ഇതാണ് സർക്യൂട്ട് A യിൽ നിന്ന് B യിലേക്കുള്ള ഈ വോൾട്ടേജ് VAB Vab ആണ് ഒരേ വോൾട്ടേജ് ഇമ്പിടൻസാണ് ഇത് Z ∆ IAB ആണ് അതിനാൽ ഈ ഫേസിന് IAB Vab Z ∆ ഇതേ പോലെ തന്നെ IBC Vbc Z ∆ യും ICA Vca Z ∆ യും ആണ് ഇനി ഈ ഫേസ് കറണ്ട് ലഭിക്കാനുള്ള മറ്റൊരു വഴി KVL പ്രയോഗിക്കുക എന്നതാണ് ഉദാഹരണത്തിന് aA bB na ലൂപ്പിന് ചുറ്റും KVL പ്രയോഗിക്കുക നമ്മൾ ഈ ലൂപ്പിൽ KVL പ്രയോഗിച്ചാൽ Z ∆ IAB Vbn Van 0 അതിനർത്ഥം IAB Van Vbn Z∆ കൂടാതെ ഇപ്പോൾ നമുക്ക് Van Vbn √ 3 ആംഗിൾ 30o എന്ന് കിട്ടി അതേ രീതിയിൽ നമുക്ക് കിട്ടും അത് കൊണ്ടാണ് IAB ഇങ്ങനെയെഴുതാനാവുന്നത് ഇത് പോലെയുള്ള രണ്ടെണ്ണവും നമുക്ക് ചെയ്യാം അത് കൊണ്ടാണ് IAB Van Vbn Z∆ Vab Z ∆ VABZ ∆ അതിനാൽ A B C നോഡുകളിൽ kcl പ്രയോഗിച്ചാണ് ഫേസ് കറന്റിൽ നിന്ന് ലൈൻ കറന്റുകൾ ലഭിക്കുന്നത് നോഡ് A യിൽ പ്രയോഗിക്കുകയാണെങ്കിൽ Ia എന്നത് IAB ICA എന്നായിരിക്കും Ib എന്നത് IBC IAB എന്നാവും ഇവിടെ നോഡ് A യിലും നോഡ് B യിലും നോഡ് C യിലും KCL പ്രയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് സമവാക്യം ലഭിക്കും അതേ പോലെ Ic ICA IBC ഇനി IAB ICA നോക്കുകയാണെങ്കിൽ IAB Vab Z ∆ യും ICA Vca Z ∆ യുമാണ് അത് ചെയ്യുമ്പോൾ IAB ICA Vab Z ∆ × Z ∆ CA ഇവിടെ Z ∆ യും Z ∆ യും വെട്ടിപോവും അതിനാൽ IAB ICA VabVca ഇത് IAB ഫേസ് കറണ്ടിനും ICA ലൈൻ വോൾട്ടേജിനും ആനുപാതികമാണ് VabVca അതിനാൽ IAB ICA Vab Vca എന്നത് Vab ആംഗിൾ 240o ആണെന്ന് നമുക്കറിയാം അത് പകരം ചേർക്കാം അപ്പോൾ Vab യും Vab യും വെട്ടി പോകും അതിനാൽ ICA IAB ആംഗിൾ 240o IBC യും ഇതുപോലെ IAB ആംഗിൾ 120o എന്ന് ലഭിക്കും ഇനി ഇതേ പോലെ IABIBC ചെയ്തുനോക്കുക അപ്പോൾ ഇതേ ബന്ധം 120o കിട്ടും ഇത് വളരെ എളുപ്പമാണ് ഇതേ പോലെ പടി പടിയായി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിത് കിട്ടും അപ്പോൾ IBC IAB ആംഗിൾ 120o എന്ന് കിട്ടും ഇത് സന്തുലിതമാണ് അപ്പോൾ ഈ കേസിൽ നമുക്കറിയാം Ia IAB ICA ഇതിൽ ICA IAB ആംഗിൾ 240o ആണ് അതിവിടെ ചേർക്കുക അത് ചെയ്ത് ലഘൂകരിക്കുമ്പോൾ Ia √ 3 IAB ആംഗിൾ 30o എന്ന് ലഭിക്കും അതിനർത്ഥം ലൈൻ കറണ്ട് √ 3 തവണ ഫേസ് കറണ്ടാണെന്നാണ് ഇവിടെ ആംഗിൾ 30o ആണ് ഇനി അളവിന്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ലൈൻ കറണ്ട് IL |Ia| |Ib| |Ic| ആയിരിക്കും ഇതേ പോലെ ഫേസ് കറണ്ട് Ip |IAB| |IBC| | ICA| എന്നായിരിക്കും ഇവിടെ ഇതാണ് ഫേസ് കറണ്ട് അതിനാൽ ∆ കണക്ഷന് ILലൈൻ കറണ്ട് √ 3 തവണ ഫേസ് കറണ്ട് ആണ് നമ്മൾ നേരത്തെ Y കണക്ഷന് ലൈൻ വോൾട്ടേജ് √ 3 തവണ ഫേസ് വോൾട്ടേജാണെന്ന് കണ്ടു ഇപ്പോൾ ഇവിടെ ∆ കണക്ഷന് ലൈൻ കറണ്ട് √ 3 തവണ ഫേസ് കറണ്ട് ആണ് ഇത് ഒരു ബന്ധത്തിൽ നിന്നുള്ളതാണ് ഇതുപോലെ 120o അകലെയുള്ള ബാക്കിയുള്ളതും നമുക്ക് കിട്ടും നമ്മൾ ഫേസർ ഡയഗ്രം വരക്കുകയാണെങ്കിൽ ഇതാണ് IAB ഇതാണ് IBC ഇതാണ് ICA ഇതാണ് ഫേസ് കറണ്ട് Ia ഈ ഫേസ് കറണ്ടിൽ നിന്ന് ആംഗിൾ 30o ലാഗ് ചെയ്യുന്നുണ്ട് അത് കൊണ്ടാണ് ഇത് Ia 30o അത് പോലെ Ib 30o യും Ic യും ആയത് സമാനമായി ലൈൻ കറണ്ടിനും ഫേസ് കറണ്ടിനും ഇടയിൽ 120o അകലെയായി വരക്കുക ഇതാണ് ഫിഗർ 15 ഇതാണ് ഫേസർ ഡയഗ്രം അതിനാൽ Ia √ 3 IAB ആംഗിൾ 30o Ib Ia ആംഗിൾ 120o Ic Ia ആംഗിൾ 120o Y ∆ സർക്യൂട്ട് വിശകലനം ചെയ്യുന്നതിനുള്ള ഒരു ബദൽ മാർഗം ∆ കണക്റ്റു ചെയ്ത ലോഡിനെ തുല്യമായ Y കണക്റ്റു ചെയ്ത ലോഡിലേക്ക് പരിവർത്തനം ചെയ്യുക എന്നതാണ് ഇത് ഞാൻ കൂടുതൽ ചെയ്യുന്നില്ല ഇത് ഡി സി സർക്യൂട്ടിന് സമമാണ് ഇത് കൂടുതൽ വലിച്ചു നീട്ടി പറയുന്നില്ല അതിനാൽ ∆ Y ട്രാൻസ്ഫോർമേഷൻ ഉപയോഗിച്ച് ZY Z∆ 3 ഈ പരിവർത്തനത്തിനു ശേഷം ഫിഗർ 10 ൽ ഉള്ളത് പോലെ നമുക്കൊരു Y Y സിസ്റ്റം ഉണ്ട് അപ്പോൾ ഇവിടെ ഇത് ZY Z ∆ 3 ഇനി ഇതൊരു സിംഗിൾ ഫേസ് ആയ ഇക്വലന്റ് സർക്യൂട്ടാണ് ഇത് Van ആണ് ഇത് Ia ആണ് ZY Z ∆3 ആണ് ഇത് സന്തുലിതമായ സിംഗിൾ ഫേസ് ആയതിനാൽ ഇത് ഫേസ് a ഉപയോഗിച്ച് മാത്രമേ സൂചിപ്പിച്ചിട്ടുള്ളു ഇത് ലൈൻ കറണ്ടിനെ മാത്രമായിട്ട് കണക്ക് കൂട്ടാൻ അനുവദിക്കുന്നു അതിനാൽ Y ∆ പരിവർത്തനത്തിലും ∆ Y പരിവർത്തനത്തിലും ഇത് സാധ്യമാണ് ഇനിയൊരു ചെറിയ ഉദാഹരണം എടുക്കാം ഒരു സന്തുലിതമായ abc സീക്വൻസിലുള്ള Van 100 ആംഗിൾ 10o വോൾട്ടോട് കൂടിയ Y കണക്റ്റഡ് സ്രോതസ്സ് ∆ കണക്റ്റഡായ സന്തുലിതമായ 8 j 4 Ω പെർ ഫേസ് ലോഡിലേക്ക് ബന്ധിപ്പിച്ചിട്ടുണ്ട് ഇതിന്റെ ഫേസ് കറണ്ടും ലൈൻ കറണ്ടും കണക്കാക്കുക ഇവിടെ ZΔ 8 j 4 തന്നിട്ടുണ്ട് അത് 8 944 ആംഗിൾ 26 ഫേസ് വോൾട്ടേജ് Van 100 ആംഗിൾ 10o വോൾട്ടാണെങ്കിൽ ലൈൻ വോൾട്ടേജ് Vab VAB √ 3 Van ആംഗിൾ 30o ആയിരിക്കും Vab √ 3 ×100 ആംഗിൾ 10o √ 300 ആംഗിൾ 10 30 173 2 ആംഗിൾ 40o volt അതിനാൽ IAB VAB ZΔ ഈ മൂല്യങ്ങളെല്ലാം പകരം ചേർക്കുമ്പോൾ നമുക്ക് ലഭിക്കുക 19 36 ആംഗിൾ 13 43o ആംപിയർ എന്നാണ് ഇനി IBC എന്നത് IAB ആംഗിൾ 120o 19 36 ആംഗിൾ 13 43o 120o 19 36 ആംഗിൾ 106 57o ആംപിയർ സമാനമായി ICA IAB ആംഗിൾ 240o IAB ആംഗിൾ 120o 19 36 ആംഗിൾ 13 43o 120o 19 36 ആംഗിൾ 133 43o ആംപിയർ യഥാർത്ഥത്തിൽ ഇതെല്ലാം വളരെ എളുപ്പമാണ് ഈ പുസ്തകത്തിലൂടെ ഒന്ന് ഓടിച്ച് നോക്കി നമ്മൾ ഇവിടെ ചർച്ച ചെയ്തതെന്താന്നെന്ന് നോക്കുക ലൈൻ കറണ്ട് Ia √ 3 IAB ആംഗിൾ 30o ഇതിന്റെ മൂല്യങ്ങൾ പകരം ചേർക്കുകയാണെങ്കിൽ IAB എന്നത് 19 36 ആംഗിൾ 13 43o 30o ആവും അപ്പോൾ Ia എന്നത് ഇതായിട്ട് കിട്ടും സമാനമായി Ib Ia ആംഗിൾ 120o Iaന്റെ മൂല്യം ഇതിൽ പകരം ചേർക്കുമ്പോൾ Ib എന്നത് ഇത്രയായിരിക്കും കറണ്ട് രണ്ടിനും ഒരേ അളവായിരിക്കും 33 ആംഗിൾ നോക്കുകയാണെങ്കിൽ ഈ രണ്ടിന്റെയും ആംഗിളിന്റെ വ്യത്യാസം നോക്കിയാൽ നമുക്ക് 120o എന്ന് കിട്ടും അതേ പോലെ Ic I ആംഗിൾ 120o Ic 33 53 ആംഗിൾ 103 43o ആംപിയർ എന്ന് ലഭിക്കും ഇനി ഇത് സോൾവ് ചെയ്യാനുള്ള എക്സസൈസാണ് തന്നിട്ടുള്ളത് വൺ ലൈൻ എന്ന് പറഞ്ഞാൽ സിംഗിൾ ലൈനാണ് ഒരു Y കണക്റ്റഡ് സ്രോതസിന്റെ വൺ ലൈൻ വോൾട്ടേജ് ഇവിടെ തന്നിരിക്കുന്നു ഈ സ്രോതസിനെ ഒരു ∆ കണക്റ്റഡ് ലോഡിലേക്ക് ബന്ധിപ്പിക്കുകയാണെങ്കിൽ ഇമ്പിടൻസ് 20 ആംഗിൾ 40o ആണ് നമുക്ക് കണ്ടെത്തേണ്ടത് ഫേസ് കറണ്ടും ലൈൻ കറണ്ടുമാണ് abc സീക്വൻസ് അനുമാനിക്കുകയും വേണം ഇത് നിങ്ങൾക്കുള്ള ഒരു എക്സസൈസ് ആണ് ഇതിന്റെ ഉത്തരം ഇവിടെ നൽകിയിട്ടില്ല അടുത്തത് സന്തുലിതമായ ∆ ∆ കണക്ഷനാണ് ∆ ലോഡിന്റെയും ∆ സ്രോതസ്സിന്റെയും കാര്യത്തിൽ ലൈൻ വോൾട്ടേജും ഫേസ് വോൾട്ടേജും തുല്യമായിരിക്കും അതിനാൽ ഇതൊരു ∆ ∆ കണക്ഷൻ ആണെങ്കിൽ Vab ഈ ഫേസിൽ ഇവിടെയുണ്ടാകും സമാനമായി VAB ഇത് തന്നെയായിരിക്കും കാരണം ∆ ∆ കണക്ഷനിൽ ലൈൻ വോൾട്ടേജും ഫേസ് വോൾട്ടേജും സമമായിരിക്കും ഇവിടെ ഇത് രണ്ടും ∆ ആയിരിക്കും അപ്പോൾ ഈ സന്തുലിതമായ ലോഡ് ∆ യാണ് സ്രോതസ്സും ∆ യാണ് ഇതിന്റെ ഇമ്പിടൻസിന്റെ സീരീസും സമമായിരിക്കും Z ∆ യും Z ∆ യും തന്നിട്ടുണ്ട് ഇത് ലൈൻ കറണ്ട് Ia Ib Ic എന്നിവയാണ് ഇവയെല്ലാം ∆ യാണ് അത്പോലെ ഇതെല്ലാം ഫേസ് കറണ്ട് IAB IBC ICA അതിനാൽ ∆ ∆ യിൽ ലൈൻ വോൾട്ടേജ് ഫേസ് വോൾട്ടേജിന് തുല്യമായിരിക്കും അതിനാൽ നമ്മുടെ ലക്ഷ്യം ഫേസ് കറണ്ടും ലൈൻ കറണ്ടും നേടുക എന്നതാണ് ഒരു ∆ കണക്റ്റഡ് സ്രോതസ്സിന് ലൈൻ വോൾട്ടേജ് ഫേസ് വോൾട്ടേജാണ് കാരണം രണ്ടും ∆ യും ∆ യുമാണ് ഇതിൽ ന്യൂട്രൽ ഇല്ല an bn cn എന്നിവയില്ല ഇവയെല്ലാം ലൈൻ ടു ലൈനാണ് അതിനാൽ ലൈൻ വോൾട്ടേജ് ഫേസ് വോൾട്ടേജ് അതിനാൽ Vab Vp ആംഗിൾ 0o Vbc Vp ആംഗിൾ 120o Vca Vp ആംഗിൾ 120o ലൈൻ വോൾട്ടേജും ഫേസ് വോൾട്ടേജും തുല്യമാണ് അതിനാൽ Vp VL അപ്പോൾ ഇത് VL ആംഗിൾ 0o ഇത് VL ആംഗിൾ 120o ഇത് VL ആംഗിൾ 120o ഇവിടെ രണ്ടും തുല്യമാണ് അതിനാൽ Vab VAB Vbc VBC Vca VCA ഇവിടെയും ഇത് അങ്ങനെത്തന്നെയാണ് ഇത് A ഇത് B ഇത് a ഇത് b ഇവിടെ ഈ ലൈനിൽ ഒന്നുമില്ല അതിനാൽ Vab VAB Vbc VBC Vca VCA അതിനാൽ ഫേസ് കറണ്ടുകൾ IAB VabZΔ IBC Vbc ZΔ ICA VcaZΔ എന്നിവയാണ് ഇനി നോഡ് ABC യിൽ KVL പ്രയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്നത് Ia IAB ICA Ib IBC IAB I c ICA IBC ഇത് ഇതിനകം കാണിച്ചിട്ടുള്ളതാണ് അതായത് ഓരോ ലൈൻ കറണ്ടും അതിനനുസൃതമായിട്ടുളള ഫേസ് കറണ്ടിനെ 30o ലാഗ് ചെയ്യുന്നതാണ് ഇത് നമ്മൾ മുമ്പത്തെ ഉദാഹരണത്തിൽ കണ്ടതാണ് അതിനാൽ ലൈൻ കറണ്ടിന്റെ IL അളവ് √ 3 തവണ ഫേസ് കറണ്ടിന്റെ അളവാണ് കാരണം ഇത് ലൈൻ കറണ്ടും അത് പോലെ ∆ കണക്റ്റഡ് ലോഡുമാണ് അതിനാൽ ലൈൻ കറണ്ട് √ 3 തവണ ഫേസ് കറണ്ട് ആണ് ഇനി മറ്റൊരു ചെറിയ ഉദാഹരണം എടുക്കാം ഒരു സന്തുലിതമായ 20 j 15 Ω ഇമ്പിടൻസുള്ള ∆ കണക്റ്റഡ് ലോഡ് ഒരു Vab 330 ആംഗിൾ 0o വോൾട്ട് ഉള്ള ∆ കണക്റ്റഡ് സ്രോതസ്സിലേക്ക് ബന്ധിപ്പിച്ചിട്ടുണ്ട് ലോഡിന്റെയും ലൈൻ കറണ്ടിന്റെയും ഫേസ് കറണ്ടുകൾ കണക്കാക്കുക ഇവിടെ ZΔ 25 ആംഗിൾ 36 ഇവിടെ VAB Vab ആയതിനാൽ ഫേസ് കറണ്ട് IAB Vab ZΔ 13 2 ആംഗിൾ 36 87o ആംപിയർ സമാനമായി IBC IAB ആംഗിൾ 120o ഈ IAB ഇവിടെ പകരം ചേർക്കുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുക 13 2 ആംഗിൾ 83 13 ആംപിയർ ഇതേ പോലെ ICA IAB ആംഗിൾ 120o എന്ന് കിട്ടും അത് 13 2 ആംഗിൾ 156 87o ആംപിയർ ആണ് മാത്രമല്ല നമുക്കറിയാം IL ലൈൻ കറണ്ട് √ 3 ഫേസ് കറണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ മൂല്യവും ലഭിക്കും Ia Ib Ic ഇതിന്റെ അളവുകൾ സമമാണ് ആംഗിളുകൾ പകരം ചേർത്തതാണ് ആംഗിൾ ആശ്രയത്വം വീണ്ടും 120o ആയിരിക്കും ഇതിന്റെ അളവുകൾ 22 86 ഉം ആംഗിളുകൾ ഇതുമാണ് അടുത്തത് സന്തുലിതമായ ∆ Y കണക്ഷനാണ് ഈ കേസിൽ സ്രോതസ്സ് ∆ യും ലോഡ് Y യുമാണ് അപ്പോൾ ഈ Y ലോഡ് ചെയ്യുമ്പോൾ ഈ കേസിൽ ലൈൻ കറണ്ട് ഫേസ് കറണ്ട് ആണ് കാരണം അതേ കറണ്ട് I തന്നെയാണ് ഇവിടെ പ്രവേശിക്കുന്നത് അതിനാൽ ലൈൻ കറണ്ട് ഫേസ് കറണ്ട് ഇത് വോൾട്ടേജ് സ്രോതസ്സാണ് സ്രോതസ്സ് ഇവിടെ ∆ ആണ് ഇവിടെയും ഇതേ തത്വം തന്നെയായിരിക്കും അതായത് ലൈൻ വോൾട്ടേജ് √ 3 തവണ ഫേസ് വോൾട്ടേജ് ആയിരിക്കും ഇത് കറണ്ട് Ia Ib Ic ആണ് ഇത് N ആണ് ഇത് ZY ZY ZY ഇവിടെ സ്രോതസ്സ് ∆ യും ലോഡ് Y ഉം ആണ് ഇവിടെ ലൈൻ കറണ്ട് ഫേസ് കറണ്ട് ആണ് പക്ഷെ ലൈൻ വോൾട്ടേജ് √ 3 ഫേസ് വോൾട്ടേജാണ് അപ്പോൾ ഇതാണ് സർക്യൂട്ട് ഡയഗ്രം പൊളാരിറ്റി എങ്ങനെ രേഖപ്പെടുത്തണം എന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ Vab Vp ആംഗിൾ 0o Vbc Vp ആംഗിൾ 120o Vca Vp ആംഗിൾ 120o അത് കൊണ്ട് തന്നെ ഇവ VL ആംഗിൾ 0o VL ആംഗിൾ 120oVL ആംഗിൾ 120o എന്നുമായിരിക്കും ഇനി a A N B b a ലൂപ്പിലേക്ക് KVL പ്രയോഗിക്കുക അപ്പോൾ KVL പ്രയോഗിച്ചാൽ നമുക്ക് കിട്ടുന്നത് ഇത് Ia ZY ആണ് ഇതാണ് Ia പക്ഷേ ഈ കറണ്ട് ഇങ്ങോട്ടേക്കാണ് ഒഴുകുന്നത് അപ്പോൾ ഇത് Ib ZY ആവും കൂടാതെ ഇത് മൈനസ് ടെർമിനൽ പാതയെയാണ് അഭിമുഖീകരിക്കുന്നതെന്നതിനാൽ ഇത് Vab 0 എന്നുമാവും ആ സമവാക്യം ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് Ia Zy Ib Zy Vab 0 അതിനർത്ഥം Ia Ib Vab ZY അപ്പോൾ ഈ Ia Ib Vp ആംഗിൾ 0° ZY VLആംഗിൾ 0° ZY അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് Vab Vp ആംഗിൾ 0° ലൈൻ വോൾട്ടേജ് VL ആംഗിൾ 0° ZY പക്ഷെ Ib Ia യെ 120o ലാഗ് ചെയ്യുന്നു അതിനാൽ Ib Ia ആംഗിൾ 120o ഇത് ഇവിടെ ചേർത്ത് ലഘൂകരിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് Ia Vp √3 ആംഗിൾ 30o ZY എന്നാണ് Vp എന്നതിനെ മാറ്റുമ്പോൾ VL√ 3 ആംഗിൾ 30o ZY എന്നാവും ഇവിടെ നമ്മൾ Vab VLആംഗിൾ 0o VL ആംഗിൾ 120o VL ആംഗിൾ 120o എന്നത് കണ്ടിരുന്നു അതേ പോലെ ഇവിടെയുള്ളത് VL √ 3 ആംഗിൾ 30 ZY സമാനമായി Ib Ia ആംഗിൾ 120o ഇത് ഞാൻ പകരം ചേർക്കുകയാണെങ്കിൽ എനിക്ക് കിട്ടുക VL √ 3 ആംഗിൾ 150o ZY എന്നാണ് ഇതേ പോലെ Ic Vp√ 3ആംഗിൾ 90o ZY VL√ 3 ആംഗിൾ 90o ZY ഇത് വളരെ എളുപ്പമുള്ളതാണ് ∆ സ്രോതസ്സിന് ഫേസ് വോൾട്ടേജും ലൈൻ വോൾട്ടേജും സമമായിരിക്കും അതുകൊണ്ടാണ് ഇവിടെ ലൈൻ വോൾട്ടേജ് ഫേസ് വോൾട്ടേജ് എന്ന് എടുത്തിട്ടുള്ളത് ഫേസ് a നെ ഞാൻ അവതരിപ്പിക്കുകയാണെങ്കിൽ Ia VL√ 3 ആംഗിൾ 30oZY അതിനെ Vab√ 3 ആംഗിൾ 30o ZY എന്നാക്കാം Ia എന്നതാണ് കറണ്ട് അതിനാൽ Ia എന്നത് VL√ 3 ആംഗിൾ 30oZY ഇത് ഇതിന് തുല്യമായിരിക്കും കാരണം Vab VL ആണ് ഇത് ഒരു ഫേസ് ഉപയോഗിച്ചാണ് അവതരിപ്പിച്ചിട്ടുള്ളത് അതിനാൽ ഇതും നമുക്ക് അവതരിപ്പിക്കാം അപ്പോൾ ഇതിന്റെ ഫേസർ ഡയഗ്രം വരക്കുകയാണെങ്കിൽ ഇതാണ് Vab ഇത് Vbc യും ഇത് Vca യുമാണ് ഇനി ഈ ∆ കണ്ടെത്താൻ ശ്രമിക്കുകയാണെങ്കിൽ ഇതാണ് Vab ഇതെല്ലാം 120o ആണ് ഇതാണ് Vca ഇതാണ് Vbc ഞാനിത് മായിച്ച് കളയട്ടെ യഥാർത്ഥത്തിൽ ഇതിന്റെ ഡയഗ്രം ഇതുപോലെ ആയിരിക്കും ഇതാണ് Vbc ഇതിവിടെ വരച്ചിട്ടുണ്ട് ഇതാണ് Vca അപ്പോൾ ഇതും Vca ആണ് ഇനി ഇതിൽ ഇതാണ് Vbc ഇതാണ് Vab ഇതാണ് Vca ഇതിനകത്ത് n എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഫിഗർ 20 ആണ് ഈ ആംഗിൾ 30o ആണ് Van Vp യും Vbn Vp യും ആണ് ഈ അളവുകളെല്ലാം നമ്മൾ സോൾവ് ചെയ്തതാണ് അതിനർത്ഥം ഈ Vab എന്നത് Vab 2 ആണ് ഇത് സമഭുജ ത്രികോണം ആണ് അതിനാൽ Vab 2 Van ഇത് യഥാർത്ഥത്തിൽ Vp ആണ് കാരണം ഇത് Van ന്റെ അളവിന് തുല്യമാണ് അതിനാൽ Van Vp ആണ് അപ്പോൾ ഇവിടെ ഇത് Vp cos 30o Vab 2 Vp cos 30o അതിനർത്ഥം Van cos 30o |Vab| 2 Vp 2 VL 2 അതിനാൽ |Van | VL√ 3 ഇവിടുത്തെ cos 30 √3 2 അതിനാൽ ഫേസ് വോൾട്ടേജ് ലൈൻ വോൾട്ടേജ് VL √ 3 മറ്റൊരു രീതിയിൽ ലൈൻ വോൾട്ടേജ് √ 3 ഫേസ് വോൾട്ടേജ് അതിനാൽ നമുക്ക് Van VL√ 3 ആംഗിൾ 30o എന്നെഴുതാം അപ്പോൾ ഇതാണ് Van അപ്പോൾ ഈ ദിശയിലാണ് Van അതിനാൽ Van Vab യിൽ നിന്ന് 30o ലാഗ് ചെയ്യും അത് കൊണ്ടാണ് Van VL√ 3 ആംഗിൾ 30o Vp√ 3 ആംഗിൾ 30o സമാനമായി Vbn നും Vcn ഇവിടുണ്ട് ഇതാണ് Van Vbn Vcn ഇത് ഇവിടെ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഈ കേസിൽ ഇത് Van ആയിരിക്കും അപ്പോൾ മുമ്പത്തേതു പോലെ ഇതാണ് Van നേരത്തെ ഇത് 30o മാറുന്നുണ്ടായിരുന്നു പക്ഷെ എഴുതിയിരുന്നത് 30o Van എന്നായിരുന്നു ഇനി Vbn Vp√ 3 ആംഗിൾ 150o Vcn Vp √ 3 ആംഗിൾ 90o VAN Ia ZY VL√ 3 ആംഗിൾ 30o കാരണം ∆ കണക്ഷനിൽ ലൈൻ വോൾട്ടേജ് ഫേസ് വോൾട്ടേജ് നമുക്കറിയാം VBN VAN ആംഗിൾ 120o കാരണം ഇത് 120o ലാഗ് ചെയ്യുന്നു അതുപോലെ VCN VAN ആംഗിൾ 120o ഇനി ഇതിൽ Van Vp √ 3 പകരം ചേർക്കുകയാണെങ്കിൽ ഇവിടെ ഇത് Vp √ 3 ആംഗിൾ 150o എന്നും ഇവിടെ Van Vp√ 3 ആംഗിൾ 30o എന്നും ഇവിടെ Vp√ 30 ആംഗിൾ 90o എന്നുമാവും നമുക്ക് വീണ്ടും കാണാം വളരെയധികം നന്ദി